കോൺസ്റ്റന്റ് ഇൻപുട് കൊടുക്കുമ്പോൾ ഉള്ള ഫസ്റ്റ് ഓർഡർ സർക്യുട്ടിന്റെ റെസ്പോൺസ് നമ്മൾ നിരന്തരമായി വിശകലനം ചെയ്തു ഏതെങ്കിലും ഫസ്റ്റ് ഓർഡർ സർക്യുട്ടിന്റെ ചില പീസ് വൈസ് കോൺസ്റ്റന്റ് ഇൻപുട്ടിനും നമുക്ക് പ്രതികരണം കണ്ടെത്താൻ കഴിയും സമയത്തെ ആശ്രയിക്കുന്ന സിഗ്നലിനുള്ള പ്രതികരണം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ സ്ഥിരമായ ഇൻപുട്സ് ഉപയോഗിച്ച് നമ്മൾ ആരംഭിച്ചു ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി സങ്കീർണ്ണമായ ഒന്നിലേക്ക് പോകും അതിനാൽ ഞങ്ങൾ ആദ്യം ഉപയോഗിച്ച അതേ കാര്യം ഞാൻ എടുക്കും തുടർന്ന് ഈ കേസ് ഞാൻ ഒരു എക്സ്പോണൻഷ്യൽ ഇൻപുട്ടായി ഉപയോഗിക്കും ചില കാരണങ്ങളാൽ ഏത് ഇൻപുട്ടും എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലിന്റെ ഏതെങ്കിലും സംയോജനമായി വിഭജിക്കപ്പെടുമെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ നെറ്റ്വർക്ക് സെൻസ് സിസ്റ്റം പോലുള്ള ഒരു കോഴ്സിൽ ഇപ്പോൾ നിങ്ങൾ വിശദാംശങ്ങൾ കാണുമെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാനാകില്ലേ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഉണ്ടായിരുന്നിരിക്കാം അത് ഒരു എക്സ്പോണൻഷ്യൽ ഔട്ട്പുട്ട് നൽകുന്നുവെന്ന് നമുക്ക് സങ്കല്പിക്കാം നിങ്ങൾ ഇത് മറ്റൊരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിലേക്ക് നൽകി ഈ സാഹചര്യത്തിൽ ഡിഫറൻഷ്യൽ സമവാക്യം എഴുതാൻ സാധിക്കും ഇവിടെ Vc യുടെ മൂല്യം നമ്മൾ നേരത്തേ നിർവചിച്ചിട്ടുണ്ട് ഇത് t0 ൽ കൂടുതലുള്ളതിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുന്നു ഇത് എങ്ങനെ പരിഹരിക്കും ഇവിടെ നിങ്ങളുടെ മുൻപരിചയത്തെ അടിസ്ഥാനമാക്കിയുള്ള മറ്റെന്തെങ്കിലും പരിഹാരങ്ങൾ ഇല്ല അതിനാൽ ഇൻപുട്ട് വ്യക്തമായ പ്രവർത്തനമാണെങ്കിൽ പരിഹാരം അതിനായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം ഈ കോഴ്സിൽ ഞങ്ങൾ ചെയ്തത് വളരെ ചെറിയ ഒരു കാര്യമാണ് അതായത് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ ഇത് ശ്രമിക്കും അങ്ങനെയാണ് കോൺസ്റ്റന്റ് ഇൻപുട്ട് വരുമ്പോൾ വേരിയബിളുകൾ മാറ്റി ഞാൻ പരിഹരിച്ചത് അതിനാൽ ആദ്യം ലളിതമായ കാര്യം നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ദയവായി ഇത് Vc1 എന്നതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എഴുതി താരതമ്യം ചെയ്യുക എനിക്ക് RC d Vc1 dt V c 1 എന്നാൽ SCR Vp ക്കു തുല്യമാണ് നമുക്ക് ഒരു ഏകീകൃത സമവാക്യം ലഭിക്കുന്നില്ല അതിനാൽ എന്തു ചെയ്യും ഈ രണ്ട് സമവാക്യങ്ങളുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ നമുക്ക് ശ്രമിക്കാം ഇത് SCR കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് RC ആണ് ഇത് ഒരു ലീനിയർ ഓപ്പറേറ്റർ മാത്രമാണ് ഞാൻ ഇത് ആ ഡെറിവേറ്റീവിനുള്ളിൽ ഇടും പിന്നെ ഇവിടെയും ഇത് ലഭിക്കും അതിനാൽ ഇപ്പോൾ ഈ പുതിയ വേരിയബിൾ VC2 എന്ന് വിളിക്കും Vc2 ന്റെ സൊല്യൂഷൻ എന്നത് 0 ആണ് അതായതു ഒരു കോൺസ്റ്റന്റ് x എക്സ്പോണൻഷ്യൽ t RC ആണ് Vc2 ന്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്നാൽ എല്ലാ വാല്യൂസ്ഉം കൊടുത്താൽ ഔട്ട്പുട്ട് 0 എന്നതാണ് എനിക്ക് വേണ്ടത് ഇതെങ്ങനെ പരിഹരിക്കാം വിദ്യാർത്ഥി VC20 എക്സ്പോണൻഷ്യൽ t RC ക്ക് തുല്യമാണ് tRC എന്നാൽ SCR × Vc Vc1 ഈ Vc മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് എന്താണ് ഉള്ളത് വിദ്യാർത്ഥി Vc എന്നത് Vp എക്സ്പോണൻഷ്യൽ s t Vc20 എക്സ്പോണൻഷ്യൽ R C S C R 1 ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യത്യസ്തമായി പ്രകടിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ Vc20 ഞാൻ ഉദ്ദേശിക്കുന്നത് Vc2 ന് തന്നെ ഇത് പരിഹരിക്കുമ്പോൾ ലഭിച്ച ഒരു ഇന്റർമീഡിയറ്റ് വേരിയബിളല്ലാതെ പ്രത്യേക പ്രാധാന്യമില്ല അതിനാൽ ഇത് ചില സ്ഥിരാങ്കങ്ങളാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് SCR 1 ചില സ്ഥിരാങ്കം x എക്സ്പോണൻഷ്യൽ t st എന്നും എഴുതാം പ്രാരംഭ വ്യവസ്ഥകളിൽ നിന്ന് ഇത് കണ്ടെത്തണം t 0 ന് തുല്യമായ വോൾട്ടേജുകൾ അപ്ലൈ ചെയ്തു എല്ലാ മൂല്യങ്ങളും കണ്ടു പിടിക്കാവുന്നതാണ് ഇതിനെ നമുക്ക് V0 എന്ന് വിളിക്കാം ഇവയെ നമ്മൾ പ്രാരംഭ സാഹചര്യങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇത് ഒരു സ്ഥിരാങ്കത്തിൻറെ ശരിയായ നിർവചനം മാത്രമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതികരണത്തിന് ഇത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക് പ്രതികരണം അല്ലെങ്കിൽ പോളാർ പ്രതികരണം അല്ലെങ്കിൽ പ്രത്യേക പരിഹാരം ഇതാണ് സ്വാഭാവിക പ്രതികരണം സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണം എല്ലായ്പ്പോഴും ഒരേപോലെ തുടരും അതിന്റെ കോയിഫിഷിയെന്റിനു മാത്രമേ മാറ്റങ്ങൾ വരൂ ഈ കോയിഫിഷിയെന്റ് നമ്മൾ കൊടുക്കുന്ന ഫോർസിങ് ഇൻപുട്ടിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന Vc അനുസരിച്ച് V0 നു വ്യത്യാസങ്ങൾ വരും ഉദാഹരണത്തിന് Vc0 ആണെങ്കിൽ എനിക്ക് Vp എക്സ്പോണൻഷ്യൽ 0 എന്നാണ് കിട്ടുക അത് വെറും Vp ആണ് ഈ മൂല്യം Vc20 Vp ആയിരിക്കും 0 ന് തുല്യമായിരിക്കും അതിനാൽ ഈ കോൺസ്റ്സ്ന്റ് Vp 1 SCR ആണ് ഈ കോൺസ്റ്സ്ന്റ് നിങ്ങൾ പ്രയോഗിക്കുന്ന ഇൻപുട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു അത് എല്ലാ ഇൻപുട്ടിനും തുല്യമല്ല 0 ഇൻപുട്ടിന് അത് കപ്പാസിറ്ററിലെ പ്രാരംഭ വോൾട്ടേജിൽ ആയിരിക്കും ഇത് കപ്പാസിറ്ററിലെ പ്രാരംഭ വോൾട്ടേജിനെയും നിർബന്ധിത പ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കും നാച്ചുറൽ റെസ്പോൺസ് എപ്പോഴും ഇൻപുട്ടിനെ ആശ്രയിച്ചിരിക്കും സ്റ്റാറ്റിസ്റ്റിക് റെസ്പോൺസ് സ്റ്റാറ്റിസ്റ്റിക് റെസ്പോൺസ്ന്റെ നിർവചനമായ ഇൻപുട്ടുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു ഇത് പോലുള്ള ഏത് സുസ്ഥിരമായ സർക്യൂട്ടിനും ഈ നാച്ചുറൽ റെസ്പോൺസ് കാലക്രമേണ ഇല്ലാതാവും അതിനാൽ തന്നെ ഈ സൊല്യൂഷൻ 1 S C R 0 ആകുന്ന സമയം വാലിഡ് അല്ല അതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രസകരമായ പരിഹാരം ലഭിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് 1 SCR ആയിരിക്കുമ്പോൾ പരിധി എടുക്കുക എന്നതാണ് ഡെൽറ്റ എന്ന മറ്റൊരു വേരിയബിൾ 1 SCR ക്ക് തുല്യമാണ് എന്ന് കരുതുകയാണെങ്കിൽ തുടർന്ന് ഡെൽറ്റ ഉപയോഗിച്ച് അനുയോജ്യമായ മാപ്പിംഗ് ഉപയോഗിച്ച് എല്ലായിടത്തും നിങ്ങൾ ഈ പരിധി എടുക്കുന്നു എന്നാൽ s 1SCR ആയിരിക്കുമ്പോൾ ഇത് സാധുവായിരിക്കില്ല SCR10 ആകുമ്പോൾ ഉള്ള വ്യവസ്ഥകൾ എന്താണ് RC സർക്യൂട്ടിലേക്കു നാച്ചുറൽ റെസ്പോൺസിന് തുല്യമായ ഒരു എക്സ്പോണേന്ഷ്യൽ ഇൻപുട്ട് ചെയ്യുകയും ചെയ്താൽ എന്താണ് അർത്ഥമാക്കുന്നത് SCR1 ന്റെ സ്വാഭാവിക പ്രതികരണത്തിന് തുല്യമായ വിചിത്രമായ എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും ഫോർസിങ് ഫങ്ക്ഷന് Vp എക്സ്പോണേന്ഷ്യൽ t RC ഈ സിസ്റ്റത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ് RC സർക്യൂട്ട് പോലെ പൊതുവായ ഏത് സർക്യൂട്ടും അതിന്റെ നാച്ചുറൽ റെസ്പോൺസ് പോലെ തന്നെയുള്ള എക്സ്പോണൻഷ്യൽ സിഗ്നൽ വഴി ഉത്തേജിപ്പിക്കുമ്പോൾ അൽപ്പം വ്യത്യസ്തമായ സൊല്യൂഷൻ ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഫോർസിങ് റെസ്പോൺസ് കൂടാതെ നാച്ചുറൽ റെസ്പോൺസും ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇൻപുട്ട് ഒരു എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ ഫോഴ്സ് റെസ്പോൺസും ഒരു എക്സ്പോണൻഷ്യൽ ആണ് ഫോഴ്സ് റെസ്പോൺസ് എന്നാൽ എന്താണ് ഇത് മുഴുവൻ ഒരു കോൺസ്റ്റന്റ് ആണ് Vp × എക്സ്പോണൻഷ്യൽ ST നമുക്ക് ലഭിക്കുന്നത് Vp SCR 1 ആണ് ഇത് Vp നേക്കാൾ ചെറുതാണ് പക്ഷേ എക്സ്പോണൻഷ്യൽ st എന്നത് ഫോഴ്സ് റെസ്പോൺസ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക് റെസ്പോൺസും എക്സ്പോണൻഷ്യൽ st ആണ് ഏതൊരു ലീനിയർ സിസ്റ്റത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇത് അതിനാൽ ഈ സങ്കീർണ്ണ ഘടകം ഒന്നുകിൽ ഈ ലീനിയർ സിസ്റ്റങ്ങളുടെ വെക്റ്ററുകളാണ് അതിന്റെ അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും ഒരു വെക്റ്റർ രൂപാന്തരപ്പെടുത്തുകയാണെങ്കിൽ ഒരു മാട്രിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് മറ്റൊരു വെക്റ്റർ ലഭിക്കും ഒരു മാട്രിക്സിന്റെ വെക്റ്ററുകൾ എന്നാൽ മാഗ്നിറ്യൂടിൽ ആണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഡിറക്ഷനിൽ അല്ല അതുപോലെ ഇവിടെ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ st ഉണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് മറ്റേതെങ്കിലും ഫംഗ്ഷനല്ല നെറ്റ്വർക്കുകളും സിസ്റ്റങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഒരു കോഴ്സ് നേരത്തേയുള്ളതാണ് അതിന്റെ വലിയ ഭാഗം ഈ എക്സ്പോണൻഷ്യൽ st അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിന്റെ വെക്റ്റർ അതിനാൽ ഇത് വളരെ ഉപയോഗപ്രദമാണ് അതിനാൽ എക്സ്പോണൻഷ്യൽ st ക്കുള്ള ഫോഴ്സ് റെസ്പോൺസ് ഒരു എക്സ്പോണൻഷ്യൽ st ആണെന്നും ഈ സ്ക്വയർ 1 കി ഗ്രാം ഒരേ ആവൃത്തിയിൽ ഉള്ള ഹാർമോണിക് തരംഗമാണെന്നും നിങ്ങൾക്കറിയാം 1 കിലോ ഹെർട്സ് 2 3 എന്നിങ്ങനെ ഒരു സൈൻ ഉണ്ടായിരിക്കും അതിനാൽ എല്ലാ സൈനസോയ്ഡലുകളും എക്സ്പോണൻഷ്യലിന്റെ ചില ലീനിയർ കോമ്പിനേഷനായി പ്രതിനിധീകരിക്കുന്ന ഏത് സിഗ്നലുകളിലേക്കും ഇത് കൂടുതൽ സാമാന്യവൽക്കരിക്കാനാകും അതിനാൽ അവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിന്റെ ജനറലൈസ്ഡ് അനാലിസിസ് കൊണ്ടുവരാൻ കഴിയും ഏത് ഇൻപുട്ടിനും നിങ്ങൾക്ക് ഔട്ട്പുട്ട് കണ്ടെത്താനാകും കോൺസ്റ്റന്റ് ഇൻപുട്ടിനായുള്ള ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് ഞങ്ങൾ പരിഹരിച്ചു കാരണം ഇവ രണ്ടും പ്രത്യേക കേസുകളല്ല കാരണം Is0 ന് തുല്യമാണെങ്കിൽ എനിക്ക് Vp V0 എക്സ്പോണൻഷ്യൽ t RC ലഭിക്കുന്നു അതിനാൽ ഈ എക്സ്പോണൻഷ്യൽ st ഫ്രീക്വൻസി പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വളരെ വേഗത്തിൽ മാറുന്നവയാണ് നെഗറ്റീവ് ആണെങ്കിൽ വളരെ വേഗം ക്ഷയിക്കുകകയും പോസിറ്റീവ് ആണെങ്കിൽ വളരെ വേഗം വലുതാവുകയും ചെയ്യും അതിനാൽ ഇവിടെ നിന്ന് എടുക്കേണ്ട പ്രധാന കാര്യം ഈ ഫസ്റ്റ് ഓർഡർ ലീനിയർ സിസ്റ്റം ചെയ്തു എന്നതാണ് എന്നാൽ ഇത് ഏത് ലീനിയർ സിസ്റ്റത്തിലും ശരിയാണ് അതിനാൽ നിങ്ങൾക്ക് സെക്കന്റ് ഓർഡർ തേർഡ് ഓർഡർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓർഡർ കണ്ടെത്തുക